നമ്മൾ ഇപ്പോൾ IoT നെറ്റ്വർക്കിംഗിനെക്കുറിച്ചുള്ള മുൻ പ്രഭാഷണത്തിൽ നിന്നും അതിനെ നിയന്ത്രിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങളിൽ നിന്നും നമ്മളുടെ ചർച്ചകൾ തുടരുന്നു IoT നെറ്റ്വർക്കുകളുടെ ആവശ്യകതകളിൽ കവറേജ് ഉയർന്ന ത്രൂപുട്ട് കുറഞ്ഞ ലേറ്റൻസി അൾട്രാ റിലയബിലിറ്റി ഉയർന്ന പവർ കാര്യക്ഷമത ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ IoT ഉപകരണങ്ങൾ വിന്യസിച്ചിരിക്കുന്ന താൽപ്പര്യമുള്ള മേഖലയിലുടനീളം സംവേദനം ആശയവിനിമയം എന്നിവയുടെ കാര്യത്തിൽ മതിയായ കവറേജ് ഉണ്ടെന്ന് ഉറപ്പാക്കുക രണ്ടാമത്തെ കാര്യം നെറ്റ്വർക്ക് പിന്തുണയ്ക്കുന്ന ത്രൂപുട്ടാണ് വളരെ പ്രധാനമാണ് ഉറവിടം മുതൽ റിസീവർ വരെ ഉദ്ദേശിച്ച റിസീവർ വരെ ചെലവഴിക്കുന്ന സമയം ചുരുങ്ങിയത് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം പക്ഷേ മിക്ക കേസുകളിലും IoT നെറ്റ്വർക്കുകൾ തത്സമയ ട്രാഫിക്കിനെ പിന്തുണയ്ക്കേണ്ടിവരും മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഡാറ്റയുടെ സമയക്രമം വളരെ പ്രധാനമാണ് ഈ പാക്കറ്റുകൾ കൃത്യസമയത്ത് ലഭിച്ചില്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ മതിയായ സേവന ഗുണനിലവാരത്തെ പിന്തുണയ്ക്കാൻ ആ ഡാറ്റ ഉപയോഗപ്രദമാകില്ല അടുത്തത് നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസ്യത അൾട്രാ റിലയബിലിറ്റി ഇടപെടൽ ശബ്ദം മുതലായവ അതിനാൽ ഒരു നെറ്റ്വർക്കിംഗ് വീക്ഷണകോണിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന ഏത് പരിഹാരങ്ങളും ഐഒടി നെറ്റ്വർക്കുകൾക്കായി ഇവ ഉയർന്ന ഊർജ്ജക്ഷമതയുള്ളതായിരിക്കണമെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടുതൽ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും ഐഒടിയുടെ ഒരു മാതൃക നടപ്പാക്കലിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വളരെ ലളിതമായ ഒരു ഉദാഹരണമാണിത് നമുക്ക് പറയാം ഈ വ്യത്യസ്ത IoT നോഡുകൾ വ്യത്യസ്ത സെൻസറുകൾ പോലെയാണ് ഈ IoT ഉപകരണങ്ങൾക്ക് റേഡിയോ ഇന്റർഫേസ് പ്രോസസർ സെൻസർ വഴിയോ ഇന്റർനെറ്റ് വഴിയോ അയയ്ക്കും ക്ലൌഡ് സംഭരണം പ്രോസസ്സിംഗ് തുടങ്ങിയവ ചെയ്യും ക്ലൌഡിൽ വ്യത്യസ്ത തരം വിശകലനങ്ങൾ ഉണ്ടാകാം അത് നടപ്പിലാക്കാൻ കഴിയും വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രവർത്തനങ്ങളുണ്ടാകാം നമുക്ക് ചില പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം അതിലൊന്നാണ് MQTT പ്രോട്ടോക്കോൾ MQTT മുഴുവൻ ഫോം മെസേജ് ക്യൂ ടെലിമെട്രി ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് MQTT യിലെ പ്രധാന കാര്യം ഇതാണ് ഇത് നിലവിലുള്ള TCPIP ന് മുകളിൽ പ്രവർത്തിക്കുന്നു MQTT ശരിയായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രീതി പബ്ലിഷ്സബ്സ്ക്രൈബുചെയ്യുക എന്നാൽ അടിസ്ഥാനപരമായി ടിസിപിഐപിയുടെ മുകളിലാണ് MQTT പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ നിങ്ങൾക്ക് TCPIP ഫ്രെയിംവർക്ക് ശരിയായി ഉപയോഗിക്കാനാകാത്ത MQTT യുടെ മറ്റൊരു വകഭേദം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൊണ്ടുവരാം എംക്യുടിടിയുടെ പ്രയോജനങ്ങൾ ഒരു പ്രസിദ്ധീകരിക്കൽസബ്സ്ക്രൈബ് ചട്ടക്കൂട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഐഒടിക്ക് വളരെ അനുയോജ്യമാണ് കാരണം ഐഒടി ഉപകരണങ്ങൾ സാധാരണയായി ഡാറ്റ പ്രസിദ്ധീകരിക്കുകയും ഡാറ്റ സംവേദനം ചെയ്യുകയും ഡാറ്റ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും കൂടാതെ ഏതോ ഏജന്റിൽ എവിടെയെങ്കിലും ബഫർ ചെയ്തിരിക്കുന്ന ഡാറ്റ പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന വരിക്കാരുടെയും ക്ലയന്റുകളുടെയും സഹായം നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വാസ്തുവിദ്യ ഐഒടിക്ക് അനുയോജ്യമാണ് മാത്രമല്ല ഇതിന് വിശ്വസനീയവും ഭാരം കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമാണ് MQTT പബ്ലിഷ്സബ്സ്ക്രൈബ് ചട്ടക്കൂട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണിത് ഈ പ്രത്യേക ചിത്രം നോക്കുക നമ്മൾക്ക് ഒരു വശത്ത് പ്രസാധകനായ MQTT ക്ലയന്റ് ഉണ്ട് ഈ പ്രസാധകൻ താപനില ഈർപ്പം മുതലായ വ്യത്യസ്ത സെൻസസ് ഡാറ്റ പ്രസിദ്ധീകരിക്കും കൂടാതെ ഈ ഡാറ്റ MQTT ബ്രോക്കറിൽ പ്രസിദ്ധീകരിക്കും MQTT ബ്രോക്കർ ഒരു സെർവർ ഈ ഡാറ്റ സംഭരിക്കുന്നു ഇപ്പോൾ വ്യത്യസ്ത ക്ലയന്റുകൾ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സബ്സ്ക്രൈബുചെയ്യും കൂടാതെ ഈ MQTT ബ്രോക്കറുടെ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിച്ച വിവരങ്ങളുമായി സെർവർ പ്രതികരിക്കാൻ പോകുന്നു ഇത് പബ്ലിഷ്സബ്സ്ക്രൈബ് മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ MQTT പ്രോട്ടോക്കോൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ആശയങ്ങൾ കൂടി നോക്കാം MQTT ൽ നമ്മൾ വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് MQTT ഘടകങ്ങൾ ഈ ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രസാധകർ വരിക്കാർ ബ്രോക്കർമാർ എന്നിവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ പ്രസാധകർ ഭാരം കുറഞ്ഞ സെൻസറുകളാണ് സെൻസർ ഡാറ്റയിൽ താൽപ്പര്യമുള്ള ആപ്ലിക്കേഷനുകളാണ് വരിക്കാർ വരിക്കാരെ പ്രസാധകരുമായി ബന്ധിപ്പിക്കാൻ ഈ ബ്രോക്കർമാർ സഹായിക്കും അതിനാൽ ഇത് പ്രവർത്തിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് ഈ കണക്റ്റിവിറ്റിയുടെ വ്യത്യസ്ത മോഡലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കണക്റ്റുചെയ്യാനും വിച്ഛേദിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും അൺസബ്സ്ക്രൈബ് ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും ഉപയോഗിക്കുന്ന വ്യത്യസ്ത രീതികൾ MQTT നൽകുന്നു താപനില സെൻസർ പോലെയുള്ള വ്യത്യസ്ത IoT സെൻസറുകൾ പോലെയാണ് ഈ പ്രസാധകരിൽ ചിലത് നമ്മളുടെ പക്കലുള്ളത് ഈ ക്യൂ ഉള്ള ബ്രോക്കറിലേക്ക് ഇവ ഡാറ്റ അയയ്ക്കും അവിടെ ഡാറ്റ ബ്രോക്കറിൽ ക്യൂ ചെയ്യപ്പെടും കൂടാതെ ക്ലയന്റുകളിൽ നിന്നുള്ള സബ്സ്ക്രിപ്ഷനെ അടിസ്ഥാനമാക്കി ഡാറ്റ അയയ്ക്കാൻ പോകുന്നു ഇവ ലാപ്ടോപ്പുകൾ പിഡിഎകൾ മൊബൈൽ ഫോണുകൾ മുതലായവ ആകാം നമുക്ക് QoS നെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് കാരണം QoS ഇല്ലാതെ നമുക്ക് IoT യെക്കുറിച്ച് ചിന്തിക്കാനാവില്ല സേവനത്തിന്റെ ഗുണനിലവാരം വളരെ പ്രധാനമാണ് MQTT പ്രോട്ടോക്കോളിന്റെ QoS ന് വ്യത്യസ്ത ഇടപാടുകൾ പരിഗണിക്കേണ്ടതുണ്ട് ആദ്യ ഇടപാട് അടിസ്ഥാനപരമായി പ്രസിദ്ധീകരണ ക്ലയന്റും MQTT സെർവറും തമ്മിലാണ് രണ്ടാമത്തെ ഇടപാട് MQTT സെർവറും സബ്സ്ക്രൈബ് ചെയ്യുന്ന ക്ലയന്റും തമ്മിലുള്ളതാണ് QoS ന് വ്യത്യസ്ത തലങ്ങളുണ്ട് ആദ്യത്തേത് QoS 0 ആണ് ഇത് പരമാവധി ഡെലിവറി ഉറപ്പാക്കുന്നു അതിനാൽ ഇതൊരു മികച്ച ശ്രമവും അംഗീകാരമില്ലാത്ത ഡാറ്റ സേവനവുമാണ് കൂടാതെ ഇവിടെ പ്രസാധകൻ ഒരു തവണ സെർവറിലേക്ക് സന്ദേശം കൈമാറുകയും സെർവർ അത് ഒരു തവണ വരിക്കാരന് കൈമാറുകയും ചെയ്യുന്നു വീണ്ടും ശ്രമിക്കുന്നതിന് അടിസ്ഥാനപരമായി യാതൊരു സാധ്യതയുമില്ല QoS 1 മറുവശത്ത് ഒരു തവണയെങ്കിലും ഡെലിവറി ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു അവിടെ സന്ദേശത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതുവരെ വീണ്ടും ശ്രമിക്കുന്നു QoS 2 കൂടുതൽ വ്യത്യസ്തമാണ് ഇത് കൃത്യമായി ഒരു തവണ ഡെലിവറി ചെയ്യുകയും സന്ദേശം കൃത്യമായി ഒരു തവണ ഡെലിവർ ചെയ്യുന്നതുവരെ വീണ്ടും ശ്രമിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഈ MQTT പ്രോട്ടോക്കോൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഇപ്പോൾ CoAP പ്രോട്ടോക്കോൾ നോക്കാം CoAP എന്നത് ഒരു തരം ആപ്ലിക്കേഷൻ ലേയേർഡ് പ്രോട്ടോക്കോളാണ് ഇത് ഒരുതരം സെഷൻ പ്രോട്ടോക്കോളാണ് CoAP ഒരു പ്രോട്ടോക്കോളാണ് ഇത് വ്യത്യസ്ത API കൾ IoT ൽ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നു IATF രൂപകൽപ്പന ചെയ്ത നിയന്ത്രിത ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോളാണ് CoAP ന്റെ പൂർണ്ണ രൂപം കാമ്പിന്റെ പൂർണ്ണ രൂപം പരിമിതമായ RESTful പരിസ്ഥിതിയാണ് HTTP യുടെ സ്ഥാനത്ത് ഭാരം കുറഞ്ഞ ഇന്റർഫേസ് ഉള്ള ആപ്ലിക്കേഷനുകൾ പ്രവർത്തനക്ഷമമാക്കാൻ ഈ പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പ് ഈ കോർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വിശ്രമിക്കുന്ന സേവനമാണ് ഇത് HTTP യ്ക്ക് തുല്യമാണ് അതിനാൽ എച്ച്ടിടിപിക്ക് പകരം നിങ്ങൾ കോർ പ്രവർത്തിപ്പിക്കുന്നു കോർ അടിസ്ഥാനപരമായി ട്രാൻസ്പോർട്ട് ലെയറിൽ യുഡിപിയുടെ മുകളിൽ പ്രവർത്തിക്കുന്നു ഇതൊരു പ്രോട്ടോക്കോളാണ് ഇതിനെ ഡാറ്റാഗ്രാം ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നു ഗതാഗത പാളി സുരക്ഷിതമാക്കുന്നതിന് കോഎപി നാല് തരം സന്ദേശങ്ങൾ നിർവ്വചിക്കുന്നു അനുരൂപീകരിക്കാവുന്ന സന്ദേശം അനുരൂപമാക്കാനാവാത്ത സന്ദേശം ആർഎസ്ടി റീസെറ്റ് സന്ദേശം അംഗീകാരം സ്ഥിരീകരിക്കാവുന്ന ടൈപ്പ് സന്ദേശത്തിന് സ്വീകർത്താവ് സന്ദേശം വ്യക്തമായി അംഗീകരിക്കുകയോ നിരസിക്കുകയോ വേണം അതിനാൽ ചില സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് കൂടാതെ സ്ഥിരീകരിക്കാനാകാത്ത ടൈപ്പ് സന്ദേശത്തിന്റെ കാര്യത്തിൽ സന്ദേശം സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വീകർത്താവ് റീസെറ്റ് സന്ദേശം അയയ്ക്കും MQTT പോലുള്ള GET PUT OBSERVE PUSH DELETE മുതലായ വ്യത്യസ്ത സന്ദേശ സന്ദേശങ്ങൾ ഇത് ഉപയോഗിക്കുന്നു അതുപോലെ ഈ വ്യത്യസ്ത സന്ദേശ തരങ്ങളായ GET PUT OBSERVE PUSH DELETE എന്നിവ ഒന്നിച്ച് ഉപയോഗിക്കുന്നത് IoT യ്ക്കായുള്ള M2M ആശയവിനിമയത്തിൽ IP മൾട്ടികാസ്റ്റ് പോലുള്ള വ്യത്യസ്ത വ്യത്യസ്ത കാര്യങ്ങൾ നിർവ്വഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യേക പ്രോട്ടോക്കോൾ പരിശോധിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ ലഭ്യമാണ് പക്ഷേ ഒരു എക്സ്പോസിറ്ററി വീക്ഷണകോണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ വിവരങ്ങൾ പര്യാപ്തമാണെന്ന് ഞാൻ കരുതുന്നു മറ്റൊരു കാഴ്ചപ്പാടിൽ XMPP പ്രോട്ടോക്കോൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു പ്രോട്ടോക്കോൾ ഉണ്ട് ഇതിന്റെ പൂർണ്ണ രൂപം എക്സ്റ്റെൻസിബിൾ മെസേജിംഗും പ്രസൻസ് പ്രോട്ടോക്കോളും ആണ് ഇത് വീണ്ടും MQTT ൽ നമ്മൾ സംസാരിച്ച പ്രസിദ്ധീകരണം സബ്സ്ക്രൈബ് മോഡൽ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എക്സ്എംഎൽ അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയ പ്രോട്ടോക്കോൾ ട്രാൻസ്പോർട്ട് ലെയർ സുരക്ഷയ്ക്കായി ട്രാൻസ്പോർട്ട് ലെയറിലെ ചുവടെയുള്ള ഡിടിഎൽഎസ് സുരക്ഷിത ട്രാൻസ്പോർട്ട് ലെയർ ഉപയോഗിക്കുന്നു ഈ മാതൃക വികേന്ദ്രീകൃതമാണ് അതായത് ഒരു കേന്ദ്രീകൃത സെർവർ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല കൂടാതെ ഇതിന് വൈവിധ്യമാർന്ന ഗുണങ്ങളുണ്ട് കാരണം ഇത് വൈവിധ്യമാർന്ന നെറ്റ്വർക്കുകൾ വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ വൈവിധ്യമാർന്ന ഏജന്റുകൾ എന്നിവ തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നു ഇത് വിപുലീകരണത്തെ പിന്തുണയ്ക്കുന്നു അതായത് സ്വകാര്യതാ ലിസ്റ്റുകൾ മൾട്ടി യൂസർ ചാറ്റ് പ്രസിദ്ധീകരിക്കൽസബ്സ്ക്രൈബ് ചാറ്റ് സ്റ്റാറ്റസ് അറിയിപ്പുകൾ തുടങ്ങിയവ പിന്തുണയ്ക്കുന്നു കൂടാതെ വിവിധ സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർവചിച്ച ഇഷ്ടാനുസൃത മാർക്ക്അപ്പ് ഭാഷയെ പിന്തുണയ്ക്കുന്നതിന്റെ വഴക്കത്തെക്കുറിച്ചും ഇത് സംസാരിക്കുന്നു കാരണം ഇത് XML അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവയിൽ ചിലത് വളരെ ഉയർന്ന തലത്തിലാണ് വളരെ ഉയർന്ന തലത്തിലുള്ള മറ്റൊന്ന് AMQP പ്രോട്ടോക്കോളാണ് എഎംക്യുപി പൂർണ്ണ ഫോം അഡ്വാൻസ്ഡ് മെസേജ് ക്യൂയിംഗ് പ്രോട്ടോക്കോൾ അധിഷ്ഠിത മെക്കാനിസത്തിന്റെ ഉപയോഗമാണ് ഞാൻ കടന്നുപോകുന്നില്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന വിശദാംശങ്ങൾ വളരെ ഉയർന്ന തലത്തിൽ സ്വീകരിക്കുന്ന അറ്റത്ത് കുറഞ്ഞ ബഫർ ഓവർഫ്ലോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഫ്ലോ കൺട്രോൾ സംരക്ഷിക്കപ്പെടുന്നതിനും AMQP യുടെ സവിശേഷതയാണ് ഇത് AMQP ഉപയോഗിച്ച് സന്ദേശ ഡെലിവറി ഗ്യാരണ്ടികൾ വ്യത്യസ്ത തരത്തിലാണ് ഒന്ന് കുറഞ്ഞത് ഒരു തവണ സന്ദേശ ഡെലിവറിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് പക്ഷേ ഈ ഗ്യാരണ്ടികൾ അങ്ങനെ ചെയ്യാം ഒന്നിലധികം തവണ ഓരോ സന്ദേശവും ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു കൂടാതെ ഒരു സന്ദേശവും ഉപേക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഒരിക്കൽ മാത്രം കൈമാറുന്നതും IEEE 1888 ഇത് ഒരു ഊർജ്ജ കാര്യക്ഷമമായ നെറ്റ്വർക്ക് നിയന്ത്രണ പ്രോട്ടോക്കോളാണ് ഇത് IPv4 അല്ലെങ്കിൽ IPv6 ലൂടെയുള്ള നെറ്റ്വർക്ക് ഘടകങ്ങൾ തമ്മിലുള്ള പൊതുവായ ഡാറ്റാ എക്സ്ചേഞ്ച് പ്രോട്ടോക്കോൾ നിർവ്വചിക്കുന്നു റിസോഴ്സ് യൂണിവേഴ്സൽ റിസോഴ്സ് ഐഡന്റിഫയറുകളുടെ ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുകയും പാരിസ്ഥിതിക നിരീക്ഷണം ഊർജ്ജ സംരക്ഷണം കേന്ദ്ര മാനേജ്മെന്റ് സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്കായി വിവിധ ആപ്ലിക്കേഷനുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഈ വസ്തുവിന്റെ പൂർണ്ണ രൂപം വിതരണ സേവനമാണ് തത്സമയം പ്രസിദ്ധീകരിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതിനെസബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അന്തർലീനമായ സവിശേഷതകൾ കാരണം IoT നെറ്റ്വർക്കുകളിൽ ഇത് ഉപയോഗിക്കാൻ വളരെ ആകർഷകമാണ് ഈ പിന്തുണ UDP ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളിന് മുകളിൽ പ്രസിദ്ധീകരിക്കുകസബ്സ്ക്രൈബ് ചെയ്യുക അതിനാൽ ഇത് ഒരു ഡാറ്റ കേന്ദ്രീകൃത ബൈനറി പ്രോട്ടോക്കോളാണ് ഈ പശ്ചാത്തലത്തിലുള്ള ഈ ഡാറ്റയെ വിഷയങ്ങൾ എന്ന് വിളിക്കുന്നു ഉപയോക്താക്കൾ ഉണ്ട് എന്നതുപോലുള്ള വിഷയങ്ങളുണ്ട് അവ ഒരു പ്രത്യേക താൽപ്പര്യമുള്ള വിഷയം സബ്സ്ക്രൈബുചെയ്യുകയും ശ്രോതാക്കൾ ഇത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു

വ്യത്യസ്ത മുൻഗണനകളുള്ള ഒന്നിലധികം സ്പീക്കറുകളുള്ള ഒരു വിഷയമുണ്ട് ഇത് ഡാറ്റ സ്ഥിരത പരിപാലനം ഉറപ്പുവരുത്തൽ ഡെലിവറി സമയപരിധി വിശ്വാസ്യത ഡാറ്റയുടെ പുതുമ വ്യത്യസ്ത പ്രോട്ടോക്കോൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ വിതരണത്തിനായി പട്ടികപ്പെടുത്തിയ QoS നെ പിന്തുണയ്ക്കുന്നു IoT നെറ്റ്വർക്കുകൾ സൈനിക വ്യാവസായിക ആരോഗ്യ പരിപാലന നിരീക്ഷണം പോലുള്ള ആപ്ലിക്കേഷനാണ് ഈ പ്രത്യേക പ്രോട്ടോക്കോൾ ഉപയോഗപ്രദമെന്ന് കണ്ടെത്തുന്നത് IoT നെറ്റ്വർക്കുകളിലെ രണ്ട് പ്രഭാഷണങ്ങളും നമ്മൾ അവസാനിക്കുന്നു നമ്മൾ സംസാരിച്ച ഈ പ്രോട്ടോക്കോളുകളെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഐഒടി ആപ്ലിക്കേഷനുകൾക്കും ഐഒടി ഇൻഡസ്ട്രി 4 0 ആപ്ലിക്കേഷനുകൾക്കും ഉപയോഗിക്കുന്നതിന് വളരെ ആകർഷകമാണ് വളരെ പ്രധാനപ്പെട്ട ആവശ്യകതകളിലൊന്ന് കണക്റ്റുചെയ്ത പെരുമാറ്റമാണ് ഇതിനുവേണ്ടി ഈ പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിച്ച ഈ പ്രോട്ടോക്കോളുകളെല്ലാം പ്രസിദ്ധീകരിക്കുകയും സബ്സ്ക്രൈബുചെയ്യുകയും ചെയ്യുന്നു കൂടാതെ മുമ്പത്തെ ഒന്ന് ഇത്തരത്തിലുള്ള കണക്റ്റുചെയ്ത സിസ്റ്റം കണക്റ്റുചെയ്ത നെറ്റ്വർക്ക് അതിനുള്ളിലെ പെരുമാറ്റ ഉള്ളടക്കം എന്നിവ നിർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കും ഇതോടെ നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലെത്തി